ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇമോഷണൽ ഇൻറലിജൻസിനെ സംബന്ധിച്ച പാഠഭാഗത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നാം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇമോഷണൽ ഇൻറലിജൻസിനെ സംബന്ധിച്ച ആശയങ്ങൾ സിദ്ധാന്തങ്ങൾ പ്രയോഗങ്ങൾ എന്നിവയാണ് ഇമോഷൻസ് ഇൻറ്റലക്റ്റ് വിസ്ഡം ക്രിയേറ്റീവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് ഈ ആശയങ്ങൾ ഇമോഷണൽ ഇൻറലിജൻസുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമോഷണൽ ഇൻറലിജൻസ് ഒരു ആമുഖം എന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം കുറച്ചു വർഷങ്ങൾക്കു മുമ്പുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നിന്നുള്ള ദൃശ്യമാണിത് വെളുത്ത ടീഷർട്ട് ഇട്ട ഫ്രഞ്ച് ടീമിൽ നിന്നുള്ള സിഡാൻ എന്ന കളിക്കാരനും ഇറ്റലിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻറെ എതിരാളിയും മൈതാനത്ത് പരസ്പരം ശാരീരികപരമായി നേരിടുന്ന ദൃശ്യങ്ങളാണിത് ഈ സംഭവത്തിനുശേഷം മൈതാനത്തു നിന്ന് പുറത്താക്കുവാൻ കാരണമായ അദ്ദേഹത്തിൻറെ പ്രവർത്തിയെകുറിച്ച് അനേകമാളുകൾ വിശകലനം ചെയ്യുവാൻ ഇടയായി മനോഹരമായി കാൽപന്ത് കളിക്കുന്ന അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എന്ന് ആളുകൾ ചിന്തിച്ചു ലോകത്തിലെ തന്നെ മികച്ച കാൽപന്ത് കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻറെ പ്രവർത്തന ശൈലിയെ കുറിച്ച് വിശകലനം ചെയ്യുവാനായി ഫ്രഞ്ച് ടിം ചുമതലപ്പെടുത്തിയ പെരുമാറ്റ ശൈലിയിൽ വൈദഗ്ധ്യമുള്ളവർ കണ്ടെത്തിയത് ഒരു പ്രതിഭയുടെ ഇരുണ്ട വശം എന്നതാണ് സൂര്യപ്രകാശത്തിന് തടസ്സം നിൽക്കുന്ന ചന്ദ്രൻറെ ഉപരിതലത്തെ കറുത്ത പാടുകൾക്ക് സമമാണിത് നമ്മുടെ പരിസ്ഥിതിയെ തകർക്കുന്ന ചില കറുത്ത വശങ്ങളാണിത് ഇപ്രകാരം ചില തെറ്റായ പെരുമാറ്റ ശൈലിയുടെ കാരണത്താൽ ഒരു പ്രത്യേക മേഖലയിൽ തിളങ്ങിനിന്ന പല ആളുകൾക്കും പതനം സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവം ഇമോഷണൽ ഇൻറലിജൻസിൻറെ പ്രാധാന്യത്തെ വരച്ചുകാട്ടുന്നു അതായത് ആളുകളുടെ ഇൻറലിജൻസിനോടൊപ്പം ഇമോഷണൽ ഇൻറലിജൻസ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആയതിനാൽ ഒരു പ്രതിഭയുടെ വൈകാരിക വിഡ്ഢിത്തരമാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു കളിയിൽ സിഡാൻറെ വൈകാരിക മഠയത്തരം അവരെ ചതിക്കുകയാണ് ആകയാൽ ഇ ക്യു ഐ ക്യു വിനെക്കാൾ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുൻപിൽ ഒരു തമാശ പറഞ്ഞു നിങ്ങളെ കളിയാക്കുവാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ പ്രതികരിക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു ഇതിൽ മികച്ച പ്രതികരണം ഏതെന്നും കണ്ടെത്തുവാൻ ശ്രമിക്കുക നിങ്ങൾ ഈ സാഹചര്യത്തെ വ്യക്തമായി വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന 5 പ്രതികരണങ്ങളെകാൾ ഉപരിയായി മറ്റ് പ്രതികരണങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കാം സത്യത്തിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം ശരിയായ ഉത്തരങ്ങൾളാണ് സാഹചര്യത്തിന് ഏറ്റവും ഉചിതമായ സമൂഹം അംഗീകരിക്കുന്ന പ്രതികരണം ഏതെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാനം നമുക്ക് ഓരോന്നോരോന്നായി വിശകലനം ചെയ്യാം ആദ്യത്തേത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടരുത് എന്ന് ആലോചിച്ചു നിങ്ങൾ വീട്ടിലേക്ക് പോകും ചില ആളുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് മടങ്ങിപ്പോകും ഞാനേറെ ബഹുമാനിക്കുന്ന വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് എന്നെ അപമാനിച്ചത് എൻറെ കുഴപ്പം കൊണ്ടാണോ അതോ അയാളുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് ഇക്കൂട്ടർ ചിന്തിക്കുന്നു അവർ എല്ലാ വീക്ഷണ കോണുകളിൽ നിന്നും ഈ സാഹചര്യത്തെ വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുകയും തൻറെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുകയും കുറ്റബോധം ഉളവാകുകയും ചെയ്യുന്നു ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉളവാക്കുന്ന തെറ്റുകൾ ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യം സാധ്യമായ മറ്റൊരു ഉത്തരം നിങ്ങൾക്ക് ആ സാഹചര്യത്തെ കുറിച്ച് ഒരു മാനസിക ഭാരം ഉണ്ടാകുന്നു എന്നതാണ് നിങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ടുതന്നെ ആ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ വേദന ഉണ്ടാകാം അത് നിങ്ങളുടെ ഉള്ളിൽ തിളച്ചുമറിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ഉള്ളിൽ വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാങ്ഓവർ അനുഭവപ്പെടാം ഇത് ഒരു മദ്യപാനിക്ക് ഉണ്ടാകുന്ന ഹാങ്ഓവറിനു സമാനമാണ് കൂടുതലായി മദ്യപിക്കുമ്പോൾ ഹാങ്ഓവർ എന്ന നിലയിൽ തലവേദനയും ശർദ്ദിയും മറ്റും അനുഭവപ്പെടുകയും അത് ആ ദിവസം മുഴുവനും നിങ്ങളെ അലട്ടുകയും ചെയ്യും വൈകാരിക പരമായ ഹാങ്ഓവർ മദ്യത്തിൻറെ ഹാങ്ഓവറിനേക്കാൾ വേദനാജനകവും കൂടുതൽ സമയം നിലനിൽക്കുന്നതുമാണ് അതിനാലാണ് ഞാൻ എൻറെ ക്ലാസുകളിൽ പറയുന്നത് മദ്യത്തിൻറെ ഹാങ്ഓവർ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് എന്നാൽ വൈകാരികപരമായ ഹാങ്ഓവർ കൂടുതൽ സമയം നിലനിൽക്കും ഉദാഹരണത്തിന് സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ ആസ്പദമാക്കി വിവിധ ചലച്ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ ഇരു രാജ്യങ്ങളിലെയും ആളുകളുടെ വൈകാരികപരമായ പ്രതികരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഏകദേശം 70 വർഷമായിട്ടും ഈ വികാരം മനുഷ്യരെ വേട്ടയാടുന്നു അതിനാലാണ് വൈകാരികപരമായ ഹാങ്ഓവർ കൂടുതൽ കാലം നിലനിൽക്കും എന്ന് പറയുന്നത് മൂന്നാമത്തെ ഉത്തരം ശക്തമായ തിരിച്ചുവരവ് നടത്തും എന്നതാണ് ഇത് സാധ്യമാണോ അതെ ഇത് തികച്ചും സാധ്യമാണ് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയാറുണ്ടല്ലോ അസാധ്യമാണെന്ന് കരുതിയാൽ അത് അസാധ്യമായിരിക്കും ഏത് വൈകാരിക സാഹചര്യത്തിലും ഒരു ശക്തമായ തിരിച്ചുവരവ് സാധ്യമാണ് എന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളോട് ഇടപെട്ട് പരിചയസമ്പന്നതയുള്ള ആളുകൾ പറയുവാൻ സാധ്യതയുള്ള ഉത്തരമാണ് ഞാൻ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ ദുഷ്കരമായ സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസവും ഉള്ളവരാണ് അവർ ആകയാൽ എന്നാൽ വൈകാരിക സഹിഷ്ണത പ്രായത്തിനനുസരിച്ച് വികാസം പ്രാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാലാണ് പ്രായമായവർ അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന ഉത്തരം നൽകുന്നത് എന്നാൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയില്ലായെങ്കിൽ തിരിച്ചുവരവ് നടത്താത്തത് നിങ്ങളെ വേട്ടയാടുകയും നിങ്ങളുടെ ഭാവിയെയും വർത്തമാനകാലത്തെയും അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും നിങ്ങളെ അപമാനിച്ച വ്യക്തിയെ തിരിച്ചും അപമാനിക്കുക എന്നതാണ് മറ്റൊരു ഉത്തരം വൈകാരിക സഹിഷ്ണുത ഇല്ലാത്ത യുവാക്കളിൽ കണ്ടുവരുന്ന സ്വാഭാവികമായ ഒരു ഉത്തരമാണ് എനിക്ക് അയാൾ തന്നത് പോലെ തിരിച്ചുനൽകണം എന്നുള്ള ചിന്ത എല്ലാരും പ്രതികരിച്ചില്ലെങ്കിൽ ആ വ്യക്തി തൻറെ തെറ്റ് മനസ്സിലാകില്ല എന്നാണ് അവരുടെ പക്ഷം എന്നാൽ പുതുതലമുറയെക്കാൾ വ്യത്യസ്തമായാണ് പഴയ തലമുറ ചിന്തിക്കുന്നത് അവരുടെ അഭിപ്രായത്തിൽ പെട്ടെന്നുള്ള പ്രതികരണം സാഹചര്യത്തിൻറെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ഇടയാകും നിങ്ങൾ പെട്ടെന്ന് പ്രതികരിച്ചാൽ നിങ്ങളെ അപമാനിച്ച വ്യക്തിക്കും ഒരാളുടെ തെറ്റ് മനസ്സിലാക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാന്നോ സാധിക്കാതെ വന്നേക്കാം നിങ്ങൾ ചെറിയൊരു ഇടവേള എടുക്കുന്നതോടുകൂടി നിങ്ങൾക്കും മറ്റ് വ്യക്തികൾക്കും കൂടുതൽ ചിന്തിക്കുവാനും വിശകലനം ചെയ്യുവാൻ സാധിക്കുന്നു ഇപ്രകാരമാണ് ഇമോഷണൽ ഇൻറലിജൻസ് പ്രവർത്തിക്കുന്നത് അഞ്ചാമത്തെ ഉത്തരം പരിശോധിക്കുമ്പോൾ ആ സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പിന്നീട് ആ വ്യക്തിയോട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് വ്യക്തിപരമായി സംസാരിക്കുക ഈ കാരണത്താലാണ് അധികം പ്രതികരിക്കാതെ ചില വ്യക്തികൾ തിരികെ പോയി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് മറ്റേ വ്യക്തിയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ മറ്റു വ്യക്തികളുടെ അസാന്നിധ്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക അതിനാലാണ് നാലാമത്തെ ഉത്തരം വീട്ടിൽ പോവുകയും കത്തിലൂടെ മറ്റേ വ്യക്തിയോട് നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കുകയും ചെയ്യും എന്നു പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് വിദ്യാർത്ഥികളായ നിങ്ങൾ രണ്ടുപേർ തമ്മിൽ പരസ്പരം വഴക്കിട്ടു ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിൽ എതിരാളിയെ നേരിടുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിതിനാൽ അവനെ പേപ്പറിൻറെ സഹായത്തോടുകൂടി നേരിടുവാൻ നിങ്ങൾ തീരുമാനിച്ചു കാരണം നിങ്ങൾ എതിരാളിയെക്കാൾ മാനസികപരമായും യുക്തിപരമായും ഉയർന്ന നിലവാരം പുലർത്തുന്നു ആയതിനാൽ നിങ്ങൾ സീനിയർ വിദ്യാർത്ഥിയിൽ നിന്നും നേരിട്ട അപമാനത്തെ വ്യക്തമാക്കി വാർഡന് കത്തെഴുതി ഇത് ഒരു ജനാധിപത്യപരമായ സാഹചര്യമാണ് എന്നാൽ നാം അപമാനം നേരിട്ടതിനാൽ നമ്മുടെ ഈഗോ ശമിപ്പിക്കുവാനായി ഉടൻതന്നെ സംതൃപ്തി ലഭിക്കണമെന്നത് മാനുഷിക വിചാരമാണ് ആയതിനാൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് എന്നെ ഇപ്രകാരം അപമാനിക്കുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ച് നൽകിയിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഉചിതമായ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവസാനത്തെ ഉത്തരമാണ് ഏറ്റവും ഉചിതമെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ വൈകാരിക പക്വത നിങ്ങൾക്ക് ഉണ്ടെന്ന് വ്യക്തമാകും ഇത് മനസ്സിലാക്കുന്നത് വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇൻറലിജൻസ് എന്ന ആശയത്തിലേക്ക് നയിക്കുന്നു ഇമോഷണൽ ഇൻറലിജൻസിനെ നിർവചിക്കുന്നതിന് മുമ്പായി വൈകാരിക പ്രതികരണങ്ങളുടെ ചില ഉദാഹരണങ്ങൾ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് വികാരത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉള്ളതെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു പരിധിയിൽ കൂടുതൽ സ്വയം നിയന്ത്രിക്കുന്ന വ്യക്തി വൈകാരിക പക്വതയുള്ളവനാണോ ഇപ്രകാരം നിയന്ത്രിക്കുവാൻ സാധ്യമല്ലാത്ത വ്യക്തി വൈകാരിക പക്വത ഇല്ലാത്തവനാണോ അതോ ഇതിനുപുറമേ മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ സംശയം നമുക്ക് ഇല്ലാതാക്കാം ചില ആളുകൾ പറയാറുണ്ട് വികാരം യുക്തിയെക്കാൾ താണതരമാണെന്ന് ജീവിത സാഹചര്യങ്ങളിൽ ആളുകൾ വികാരപരമായി പെരുമാറുമ്പോൾ നാം സാധാരണ പറയുന്നത് ഇമോഷണൽ ആകരുത് എന്നാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നാം പഴി പറയുന്നത് വികാരത്തെയാണ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആവേശഭരിതനാക്കുന്നത് എന്തു കാരണത്താലാണ് ഒരു വ്യക്തി അക്രമാസക്തനായി പെരുമാറുന്നത് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കാറില്ല വികാരം ഊർജ്ജം നിറഞ്ഞതാണ് സർഗ്ഗാത്മകത പ്രതിബദ്ധത പുതുമയുള്ള പ്രവർത്തനശൈലി എന്നിവ ഉളവാക്കുന്നത് വികാരമാണ് ഭൂരിഭാഗം സർഗ്ഗാത്മകമായ കാര്യങ്ങളും വികാരത്തിൽ നിന്ന് രൂപപ്പെടുമ്പോൾ വികാരം എങ്ങനെയാണു തരംതാണതായി മാറുന്നത് യുക്തി ചില കണക്കുകളും കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകയാൽ യുക്തി പരിമിതമാണ് കണ്ടെത്തലുകൾ പരിമിതമായതിനാൽ നിങ്ങൾ ഇന്ത്യയിൽ ആയിരിക്കുമ്പോൾ ചെയ്യുന്ന ശരിയായ ഒരു കാര്യം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ശരിയല്ലാതാകാം അതുകൊണ്ടുതന്നെ ചെറിയ സാമ്പിൾ സൈസിൽ നടത്തുന്ന പഠനങ്ങൾ ജനറലൈസ് അഥവാ പൊതുവായി കണക്കാക്കാൻ സാധ്യമല്ല എന്നാൽ ആ സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഡൊമെയിനിലെ പെരുമാറ്റം മനസ്സിലാക്കുവാൻ ആ സാങ്കേതിക പഠനത്തിൻറെ വിവരം സഹായകരമാണ് ആകയാൽ യുക്തി പരിമിതവും വികാരം അനന്തവുമാണ് വികാരം മനുഷ്യൻറെ മനസ്സിനും ശരീരത്തിനും ഹാനികരമാണെന്ന് ചിലർ പറയാറുണ്ട് നിങ്ങൾ വികാരം കൊള്ളുമ്പോൾ അക്രമാസക്തമായി പെരുമാറുവാനും സമ്മർദം അനുഭവിക്കുവാനും ചിലപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് മനസ്സിനും ശരീരത്തിനും ഇത്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ് എന്ന് മനസ്സിലാക്കുക വികാരം ഹാനികരമാണ് എന്ന് പറയുമ്പോൾ അതിൻറെ പോസിറ്റീവ് അഥവാ നല്ല വശം അവഗണിക്കുന്നു എന്നതാണ് സത്യം മനസ്സമാധാനം ആരോഗ്യം സന്തോഷം സമൃദ്ധി എന്നിവ മനുഷ്യജീവിതത്തിൽ നൽകുന്നത് വികാരമാണ് എന്നുള്ള സത്യം നാം മറന്നു പോകുന്നു മൂന്നാമതായി മറ്റൊരു മിഥ്യാധാരണ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിലൂടെയാണ് ആത്മനിയന്ത്രണം ഉണ്ടാകുന്നത് എന്നാണ് പരിധിയിൽ കവിഞ്ഞ വികാര നിയന്ത്രണം വൈകാരിക പക്വത നൽകുമെന്ന ധാരണ തെറ്റാണ് ഐൻസ്റ്റീണിൻറെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ ജോലി സാഹചര്യത്തിനനുസരിച്ച് ശരിയായ സന്ദർഭത്തിൽ ശരിയായ വ്യക്തിയോട് ഉചിതമായ വികാരം പ്രകടിപ്പിക്കുന്നതാണ് ഒരു പരിധിയിൽ കൂടുതൽ വികാരനിയന്ത്രണം നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും അപ്രകാരമുള്ള വ്യക്തികളിൽ അതിനാലാണ് ഒരു സ്ഫോടനത്തിനു സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് അതിനാൽ ഏറ്റവും ശാന്തരായ വ്യക്തികളാണ് പ്രതികരിക്കുമ്പോൾ ഏറെ ദേഷ്യപ്പെടുന്നത് കാലാകാലങ്ങളായി നിയന്ത്രിച്ചു വെച്ചിരുന്ന വികാരം വിഷാദത്തിലേക്ക് നയിക്കുകയും അത് അബോധമനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും വികാരം എപ്പോഴും പുറത്തേക്ക് പോകുവാൻ ഒരു വഴി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു പിടിച്ചുവെച്ച വികാരം പുറത്തേക്ക് പോകുമ്പോൾ നിയന്ത്രണാതീതമായി മാറുന്നു ഉദാഹരണത്തിന് ചില ആളുകൾ പറയുന്നതുപോലെ എനിക്കിനിയും ഇത് താങ്ങുവാൻ ആകില്ല അതുകൊണ്ടുതന്നെ ശരിയായ സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് ശരിയായ വികാരം പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം അത് തെറ്റായ ദിശയിൽ വഴി മാറിയേക്കാം ജീവിതത്തിൽ വികാരം അമിതമായി നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ തെറ്റായ രീതിയിലുള്ള പെരുമാറ്റ ശൈലി രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് അയാൾക്ക് തൻറെ ജീവിതത്തിൻറെ പിന്നീടുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധ്യമല്ല അയാൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാനും ആൾകൂട്ടത്തോട് ഇടപെടുവാൻ ഭയം രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് നല്ല വികാരവും തെറ്റായ വികാരവും ഉണ്ടെന്ന് പറയുന്നത് മറ്റൊരു മിഥ്യാധാരണയാണ് തെറ്റായ വികാരത്തെ പോലും നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ സാധ്യമാണ് ഉദാഹരണത്തിന് ഒരു കൊച്ചുകുട്ടി തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അത് ചെയ്യരുത് തെറ്റാണ് എന്ന രീതിയിൽ അവർക്ക് ഭയം ഉളവാക്കുന്നത് പോലെ കണ്ണുകൾകൊണ്ട് സംവേദിക്കാറുണ്ട് അവർ തെറ്റായ ഒരു ഇമോഷൻ കാണിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി അതിലൂടെ കുട്ടിയുടെ പ്രവർത്തി ഇഷ്ടമായില്ല എന്ന് കുട്ടിയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു ഇത് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നു അതിനാലാണ് ഞാൻ പറഞ്ഞത് തെറ്റായ വികാരം ശരിയായ വികാരം എന്നിങ്ങനെയുള്ള വ്യത്യാസമില്ല എന്ന് വികാരം പ്രകടിപ്പിക്കേണ്ടതാണ് അതിൻറെ അനന്തരഫലമാണ് തെറ്റും ശരിയും നിർണയിക്കുന്നതും വികാരം ന്യായവിധിയെ സ്വാധീനിക്കുന്നു എന്നതാണ് മറ്റൊരു മിഥ്യാധാരണ വികാരമല്ല ന്യായവിധിയെ സ്വാധീനിക്കുന്നത് മറിച്ച് നിങ്ങൾ പുലർത്തുന്ന കാഴ്ചപ്പാടാണ് സ്വാധീനം ചെലുത്തുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ വെളുത്ത വർഗക്കാരനായ ഒരു ന്യായാധിപൻ ആണെന്ന് വിചാരിക്കുക മറ്റൊരു വെളുത്ത വർഗ്ഗക്കാരനെതിരെ കുറ്റം ചെയ്ത കറുത്തവർഗക്കാരനെ ന്യായം വിധിക്കുമ്പോൾ താൻ ഉയർന്ന വർഗ്ഗക്കാരൻ ആണെന്നും എൻറെ വർഗത്തിന് എതിരെ തെറ്റ് ചെയ്തവൻ പരമാവധി ശിക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നത് ന്യായാധിപൻറെ കാഴ്ചപ്പാടിൻറെ പ്രശ്നമാണ് ഇപ്രകാരം കാലാകാലങ്ങളായി മനുഷ്യമനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണ നമ്മുടെ പെരുമാറ്റത്തെ തെറ്റായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വികാരത്തിൻറെ പ്രശ്നമല്ല മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൻറെ പ്രശ്നമാണ് ചിലപ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ വികാരത്തെ നിയന്ത്രിച്ചെക്കാം ആകയാൽ വികാരം ന്യായവിധിയെ സ്വാധീനിക്കുന്നില്ല മറിച്ച് വൈകാരികമായ വിലയിരുത്തലിൽ നാം ഉപയോഗിക്കുന്ന യുക്തിയാണ് ന്യായവിധിയെ സ്വാധീനിക്കുന്നത് ആകയാൽ വികാരം ന്യായവിധിയെ സ്വാധീനിക്കുന്നില്ല മറിച്ച് വൈകാരികമായ വിലയിരുത്തലിൽ നാം ഉപയോഗിക്കുന്ന യുക്തിയാണ് ന്യായവിധിയെ സ്വാധീനിക്കുന്നത് ഇപ്രകാരമുള്ള എല്ലാ വിലയിരുത്തലുകൾക്കും ശേഷം നമ്മുടെ പെരുമാറ്റത്തിൻറെ വ്യത്യസ്തങ്ങളായ വൈകാരികവും ബൌദ്ധികവുമായ മാതൃകകളെ പരിശോധിക്കാം ഇമോഷണൽ ഇൻറലിജൻസിൻറെ നിർവചനപ്രകാരം വൈകാരികവും ബൌദ്ധികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെയും മറ്റുള്ളവരുടെയും വികാരങ്ങളെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവാണ് ഇമോഷണൽ ഇൻറലിജൻസ് വളരെ സമഗ്രമായ ഈ നിർവചനത്തിന് പ്രധാനമായും നാല് സവിശേഷതകളുണ്ട് ഒന്നാമത് അത് വികാരം തിരിച്ചറിയുവാനുള്ള കഴിവാണ് രണ്ട് വികാരത്തെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് മൂന്ന് നമ്മുടെ വികാരത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുവാൻ സാധിക്കുക എന്നതാണ് നാലാമതായി വൈകാരികവും ബൌദ്ധികവുമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നതാണ് വൈകാരികവും ബൌദ്ധികവുമായ വളർച്ചയ്ക്ക് ഇമോഷണൽ ഇൻറലിജൻസ് സഹായകരമാണ് ഇതിനെക്കുറിച്ചാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത് ഇതിലേക്ക് കടക്കുന്നതിനു മുമ്പായി ഇമോഷണൽ ഇൻറലിജൻസിൻറെ നാല് പ്രധാന തിയറികളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇമോഷണൽ ഇൻറലിജൻസിൻറെ ചരിത്രം പരിശോധിക്കുമ്പോൾ തിയറികളെയും മോഡലുകളെയും രണ്ട് പ്രധാന ഫ്രെയിം വർക്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യത്തേത് സാലവേയും മേയറും നൽകിയ എബിലിറ്റി മോഡൽ രണ്ടാമത് മിക്സഡ് മോഡൽ ഗവേഷണത്തിൻറെ അടിസ്ഥാനത്തിൽ വിവിധ തീയറികളും മോഡലുകളും രൂപപ്പെടുകയുണ്ടായി ഗോൽമാന്റെ മോഡൽ Goleman's model കൂപ്പർ സവാഫ് മോഡൽ പിന്നെ ബാരൺ മോഡൽ എന്നിവയാണ് ചിലത് ഇമോഷണൽ ഇൻറലിജൻസ് ഫ്രെയിം വർക്കിൽ വളരെ പ്രധാനപെട്ട രണ്ടു മോഡലുകളാണ് എബിലിറ്റി മോഡലും മിക്സഡ് മോഡലും മിക്സഡ് മോഡൽസിൻറെ ഭാഗമായ ഗോൽമാന്റെ മോഡലിനെ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസി ബേസ്ഡ് അപ്പ്രോച് കൂപ്പർ സവാഫ് മോഡലിനെ കോമ്പിറ്റൻസി ബേസ്ഡ് അപ്പ്രോച് ബാരൺ മോഡലിനെ പേഴ്സണാലിറ്റി ബേസ്ഡ് അപ്പ്രോച് എന്നിങ്ങനെ അറിയപ്പെടുന്നു ട്രെയിറ്റ് ഇ ഐ അപ്പ്രോച് എന്ന് അറിയപ്പെടുന്ന ഫർഹാം ആൻഡ് കൊളീഗ്സ് മോഡൽ ഇങ്ങനെ കാലാകാലങ്ങളായി വിവിധ മോഡലുകൾ രൂപപ്പെട്ടു എബിലിറ്റി ബേസ്ഡ് അപ്പ്രോചിൽ പ്രധാനമായും ശ്രദ്ധകേന്ദ്രീകരിക്കുന്നത് ഇൻറെലക്ച്വൽ എന്ന ആശയത്തിനാണ് മനുഷ്യൻറെ പെരുമാറ്റത്തിൽ വികാരം എങ്ങനെ യുക്തിപരമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് സാലവേയും മേയറും വൈകാരിക വിശകലനത്തിൽ എങ്ങനെയാണ് യുക്തി കടന്നുവരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഗോൽമാന്റെ മോഡലിനെ പെർഫോമൻസ് ബേസ്ഡ് അപ്പ്രോച് എന്ന് വിളിക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും നൈപുണ്യവും കഴിവുമുള്ള ജോലിക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ കഴിവുകൾ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടുതന്നെ നല്ല പ്രകടനം കാഴ്ച വയ്ക്കുവാൻ കഴിവുകൾ അത്യന്താപേക്ഷിതമാണ് എന്ന അഭിപ്രായത്തിൽ ഗോൽമാൻ എത്തിച്ചേർന്നു ആകയാൽ വികാരപരമായ കഴിവുകൾ ജോലിസ്ഥലത്ത് കൊണ്ടുവരുന്നതിലൂടെ മികച്ച പ്രകടനം കാഴ്ച വയ്ക്കുവാൻ സാധ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു വർക്കിംഗ് വിത്ത് ഇമോഷണൽ ഇൻറലിജൻസ് എന്ന മികച്ച വിൽപ്പനയുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഈ ആശയങ്ങളെ വ്യക്തമാക്കുന്നു ഒരു സ്ഥാപനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധ്യമാകുന്ന കഴിവുകളെയും നൈപുണ്യങ്ങളെയും ഈ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു ഇമോഷണൽ ഇൻറലിജൻസിൻറെ വിവിധ തിയറികൾ അതിൻറെ വിവിധ ഡൊമെയ്നുകൾ ഇ ഐ EI അളക്കുവാൻ ഉപയോഗിക്കുന്ന വിവിധ മാർഗ്ഗങ്ങളെ സംബന്ധിച്ച് അടുത്ത പാഠത്തിൽ മനസ്സിലാക്കാം എല്ലാവർക്കും നന്ദി